എല്ലാവർക്കും നമസ്കാരം PSOSM കോഴ്സിനായുള്ള രണ്ടാമത്തെ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം മുമ്പത്തെ ട്യൂട്ടോറിയലിൽ ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കുകയും പൈത്തൺ ആരംഭിക്കുകയും ചെയ്തു ഉബുണ്ടുവിലും പൈത്തണിലും പാക്കേജ് മാനേജ്മെന്റിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാനകാര്യങ്ങളും ഞങ്ങൾ കണ്ടു ഇപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ ഗ്രാഫ് API ഉപയോഗിച്ച് Facebook ൽ നിന്ന് ഡാറ്റ എങ്ങനെ ശേഖരിക്കാമെന്ന് നമ്മൾ പഠിക്കും നിങ്ങൾ ഫേസ്ബുക്കിന്റെ ദശലക്ഷക്കണക്കിന് സാധാരണ ഉപയോക്താക്കളിൽ ഒരാളായി ഫേസ്ബുക്ക് ബ്രൌസുചെയ്തിട്ടുണ്ടാകണം എന്നാൽ നിങ്ങൾ ഇതുവരെ കണ്ടിരുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഡെവലപ്പറുടെ വീക്ഷണകോണിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അവതരിപ്പിക്കും നിങ്ങളുടെ ബ്രൌസർ തുറന്ന് developers dot facebook dot com തുറക്കുക നിങ്ങളുടെ ഡെവലപ്പർമാരുടെ ഭാഗത്തിനായി ഫേസ്ബുക്ക് എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കാണും ഇപ്പോൾ tools and support ഉപകരണങ്ങളിലും പിന്തുണയിലും ക്ലിക്കുചെയ്ത് ഗ്രാഫ് API പര്യവേക്ഷകനിലേക്ക് പോകുക നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യണം നിങ്ങൾക്കെല്ലാവർക്കും Facebook ൽ ഒരു അക്കൌണ്ട് ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ ഇവിടെ താൽക്കാലികമായി നിർത്തി ഒരു അക്കൌണ്ട് സൃഷ്ടിക്കുക തുടർന്ന് തുടരുക ഫേസ്ബുക്ക് ഗ്രാഫ് API എക്സ്പ്ലോറർ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ബാർ ഇവിടെ ശ്രദ്ധിച്ചാൽ ക്രമരഹിതമായി കാണുന്ന അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും ഒരു സ്ട്രിംഗ് നിങ്ങൾ കാണും ഇതിനെ ആക്സസ് ടോക്കൺ എന്ന് വിളിക്കുന്നു ഒരു ആക്സസ് ടോക്കൺ ഒരു താക്കോൽ പോലെയാണ് അത് നിങ്ങൾക്ക് Facebook API യുടെ വാതിൽ തുറക്കുന്നു കൂടുതൽ സാങ്കേതികമായി പറഞ്ഞാൽ ഉപയോക്താവിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനും ഉപയോക്താവിന്റെ ഐഡന്റിറ്റി നിർണ്ണയിക്കുന്നതിനും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഓപ്പൺ ആധികാരികത അല്ലെങ്കിൽ OAuth പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു പ്രാമാണീകരണ സ്ട്രിംഗാണ് ആക്സസ് ടോക്കൺ ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു ആക്സസ് ടോക്കൺ കാണുന്നില്ലെങ്കിൽ വലതുവശത്തുള്ള ഗെറ്റ് ആക്സസ് ടോക്കൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് യൂസർ ആക്സസ് ടോക്കൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ചെക്ക് ബോക്സുകളുടെ ഒരു വലിയ പട്ടിക നിങ്ങൾ കാണും ഇപ്പോൾ ഈ ചെക്ക് ബോക്സുകളിൽ ഓരോന്നും നിങ്ങൾ Facebook ന് അനുവദിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒരു അനുമതിയുമായി യോജിക്കുന്നു ഇപ്പോൾ അവയിലൊന്നിൽ ഇമെയിൽ ആക്സസ് ടോക്കൺ നേടുക ബട്ടണിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ അനുമതികൾ മുതലായവയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല ട്യൂട്ടോറിയലിൽ ഈ അനുമതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പിന്നീട് മടങ്ങിയെത്തും നിങ്ങളുടെ ഇമെയിൽ വിലാസം അറിയാൻ ഈ പ്രവർത്തനം Facebook നെ അനുവദിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുന്ന ഒരു ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടും ശരി ക്ലിക്കുചെയ്യുക ആക്സസ് ടോക്കൺ ബാറിൽ നിങ്ങൾക്ക് ആക്സസ് ടോക്കൺ ദൃശ്യമാകും നിങ്ങൾ ഈ ചെറിയ നീല സർക്കിളിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ഈ ആക്സസ് ടോക്കണെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ടോക്കൺ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച ആപ്പ് ഇവിടെ ഗ്രാഫ് API എക്സ്പ്ലോറർ ആപ്പ് ആണെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആദ്യമായി ഒരു ഡവലപ്പറായി ഫേസ്ബുക്കിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ഡീഫോൾട് ആപ്പാണ് ഇത് ഈ ആപ്പുകൾ ഡെവലപ്പർമാരുടെ കാഴ്ചപ്പാടിൽ നിർണായകമാണ് ഗ്രാഫ് API നൽകുന്നതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാതിൽ പോലെ ആണ് ഒരു ആപ്പ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഈ വാതിലിന്റെ താക്കോൽ ആണ് ആക്സസ് ടോക്കൺ അടിസ്ഥാനപരമായി ഏത് ആക്സസ് ടോക്കണോ കീയോ ഗ്രാഫ് API ലേക്ക് നയിക്കുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ വാതിലിനോട് യോജിക്കുന്നു ഒരു താക്കോൽ അതായത് ആക്സസ് ടോക്കൺ ഇല്ലാതെ നിങ്ങൾക്ക് ഗ്രാഫ് API നൽകാനാകില്ല ആപ്പ് ആയ ഒരു വാതിൽ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കീ അല്ലെങ്കിൽ ആക്സസ് ടോക്കൺ സൃഷ്ടിക്കാൻ കഴിയില്ല ഈ ട്യൂട്ടോറിയലിൽ പിന്നീട് നമ്മളുടെ സ്വന്തം ആപ്പുകൾ എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നോക്കാം ഇപ്പോൾ ടോക്കണിലേക്ക് മടങ്ങുമ്പോൾ ഈ ടോക്കൺ സൃഷ്ടിച്ച ഉപയോക്താവിന്റെ പേര് നമുക്ക് കാണാം ഈ കേസിൽ ടോം ടോക്കൺ ഇപ്പോൾ സാധുതയുള്ളതാണെന്നും കാലഹരണപ്പെടൽ സമയം ഏകദേശം 1730 മണിക്കൂറാണെന്നും നിങ്ങൾ കാണുന്നു ഇത് ഇപ്പോൾ മുതൽ 2 മണിക്കൂറിൽ താഴെയാണ് അതിനാൽ 2 മണിക്കൂറിന് ശേഷം ഈ ആക്സസ് ടോക്കൺ പൂർണ്ണമായും ഉപയോഗശൂന്യമാകും ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഈ നീണ്ട ക്രമരഹിതമായി കാണുന്ന സ്ട്രിംഗിൽ എങ്ങനെയെങ്കിലും ഉൾച്ചേർത്തിരിക്കുന്നു API ൽ നിന്ന് കുറച്ച് ഡാറ്റ ഉപയോഗിക്കാനും എക്സ്ട്രാക്റ്റുചെയ്യാനും നമുക്ക് ഇപ്പോൾ ഈ ആക്സസ് ടോക്കൺ ഇടാം അന്വേഷണ ഫീൽഡിൽ ഈ me question mark fields is equal to id comma name എന്ന് നമ്മൾ ഇവിടെ കാണുന്നു 'സബ്മിറ്റ്' അമർത്തുക നിങ്ങൾ ആവശ്യപ്പെട്ട രണ്ട് ഫീൽഡുകൾ ഉപയോഗിച്ച് API പ്രതികരിക്കുന്നതായി നിങ്ങൾ കാണുന്നു അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന me' ഭാഗം API യോട് പറയുന്നു നിലവിലുള്ള ആധികാരിക ഉപയോക്താവായ എനിക്ക് ഐഡിയും നെയിം ഫീൽഡുകളും തിരികെ നൽകണമെന്ന് നിങ്ങൾക്ക് API ൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട് ഈ തിരയൽ ഏരിയയിൽ ക്ലിക്കുചെയ്യുക ആരംഭിക്കുന്നതിനുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ കാണും നമുക്ക് വിദ്യാഭ്യാസം ജന്മദിനം ഇമെയിൽ എന്നിവ തിരഞ്ഞെടുത്ത് വീണ്ടും 'സബ്മിറ്റ്' ക്ലിക്ക് ചെയ്യാം ഇത് ഒരു കൂട്ടം ഡീബഗ് പിശകുകൾ ഡീബഗ് എറർ നൽകുന്നു കുറച്ച് മുമ്പ് നിങ്ങൾ അനുമതികൾ ഓർക്കുന്നുവെങ്കിൽ ജന്മദിനത്തിലേക്കും വിദ്യാഭ്യാസ മേഖലകളിലേക്കും ആക്സസ് ലഭിക്കുന്നതിന് നമ്മൾ ഈ ആപ്പിന് അനുമതി നൽകിയില്ല API ൽ നിന്ന് ഈ ഫീൽഡുകൾ ലഭിക്കാൻ 'get access token ഗെറ്റ് ആക്സസ് ടോക്കൺ എന്നതിലേക്ക് മടങ്ങുക get user access tokenഉപയോക്തൃ ആക്സസ് ടോക്കൺ നേടുക ബട്ടണിൽ വീണ്ടും ക്ലിക്കുചെയ്യുക ഈ സമയം നിങ്ങൾ അഭ്യർത്ഥിച്ച 3 ഇമെയിലുകൾ ഇമെയിൽ ഉപയോക്തൃ വിദ്യാഭ്യാസ ചരിത്രം ഉപയോക്തൃ ജന്മദിനം എന്നിവ പരിശോധിച്ച് 'get access token ആക്സസ് ടോക്കൺ നേടു ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ ഡയലോഗ് ബോക്സ് നിങ്ങൾ ഇപ്പോൾ പരിശോധിച്ച ഈ എല്ലാ ഫീൽഡുകളിലേക്കും ഈ ആപ്പിന് ആക്സസ് വേണോ എന്ന് ചോദിക്കുന്നത് കാണാം ഫാർംവില്ലെ അല്ലെങ്കിൽ കാൻഡി ക്രഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പ് പോലുള്ള ഏതെങ്കിലും ആപ്പ് നിങ്ങൾ മുമ്പ് ഫേസ്ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃത്യമായ ഡയലോഗ് ബോക്സ് വ്യത്യസ്തമായ ഒരു കൂട്ടം അനുമതികളോടെ ദൃശ്യമാകുന്നത് നിങ്ങൾ ഓർക്കും എല്ലാ ഫേസ്ബുക്ക് ആപ്പുകളും ഒരു ഉപയോക്താവിൽ നിന്ന് അനുമതികൾ അഭ്യർത്ഥിക്കുന്നതിനുള്ള സാധാരണ രീതിയാണിത് 'ഓക്കെ' ക്ലിക്ക് ചെയ്യുക വീണ്ടും 'സബ്മിറ്റ്' ക്ലിക്കുചെയ്യുക ആ ഡീബഗ് സന്ദേശങ്ങൾ ഇല്ലാതായതായും നിങ്ങൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടെന്നും നിങ്ങൾ കാണും ഈ ഉപയോക്താവിന് പ്രൊഫൈലിൽ ഒരു വിദ്യാഭ്യാസ ചരിത്രവും ലഭ്യമല്ലാത്തതിനാൽ ഇവിടെ വിദ്യാഭ്യാസം കാറ്റഗറി ഇല്ല ഈ ഉപയോക്താവിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്കായി നമുക്ക് നോക്കാം സുഹൃത്തുക്കൾ ഫോട്ടോകൾ എന്നിട്ട് 'സബ്മിറ്റ്' ക്ലിക്കുചെയ്യുക വീണ്ടും അനുമതികൾക്കുള്ള അതേ ഡീബഗ് സന്ദേശങ്ങൾ 'get access token ആക്സസ് ടോക്കൺ നേടുക ബട്ടണിലേക്ക് മടങ്ങുക ഉപയോക്തൃ ഫോട്ടോകളും ഉപയോക്തൃ സുഹൃത്തുക്കളും തിരഞ്ഞെടുക്കുക ആക്സസ് ടോക്കൺ നേടുക 'ഓക്കേ' ക്ലിക്കുചെയ്യുക സബ്മിറ്റ് അവിടെ ഒരു സുഹൃത്ത് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ മൊത്തം എണ്ണം 6 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ഈ ഡീബഗ് സന്ദേശം ഈ വ്യത്യാസത്തിന് വിശദീകരണം നൽകുന്നു അതിനാൽ ഈ ഗ്രാഫ് API എക്സ്പ്ലോറർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത അല്ലെങ്കിൽ ഉപയോഗിച്ച API ആ ചങ്ങാതിമാരെ മാത്രമേ തിരികെ നൽകൂ എന്ന് അതിൽ പറയുന്നു അതായത് ഫലം കാണിച്ച ഈ ഒരു സുഹൃത്ത് ഒരു ഗ്രാഫ് API പര്യവേക്ഷകൻ ഉപയോഗിച്ചു എന്നാൽ മറ്റ് 5 പേർ അങ്ങനെ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം വരെ ഫേസ്ബുക്ക് എല്ലാ സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ തിരികെ നൽകിയിരുന്നു എന്നാൽ ചില ഉപയോക്താക്കൾ ഉന്നയിച്ച ഒന്നിലധികം സ്വകാര്യത പ്രശ്നങ്ങൾ കാരണം അവർ അത് ചെയ്യുന്നത് നിർത്തി എന്തായാലും ഇപ്പോൾ ഈ ഉപയോക്താവ് ചെയ്ത പോസ്റ്റുകൾ നമുക്ക് നോക്കാം അന്വേഷണ ഏരിയയിലേക്ക് പോയി നിലവിലുള്ള ചോദ്യം നീക്കം ചെയ്ത് me slash posts' എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക വീണ്ടും അതേ നിയമം നമുക്ക് user underscore post permissions ഉപയോക്താവ് അണ്ടർസ്കോർ പോസ്റ്റ് അനുമതികൾ നേടുകയും പോകുകയും ചെയ്യാം 2013 മെയ് 8 ന് ഉപയോക്താവ് തന്റെ പ്രൊഫൈൽ ചിത്രം അപ്ഡേറ്റ് ചെയ്തതായി നമ്മൾ കാണുന്നു ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ ഭാഗം v 2 6 എന്ന് പറയുന്നു ഞങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന API യുടെ ഏറ്റവും പുതിയ പതിപ്പ് വേർഷൻ 2 6 ആണ് ഇത് ഫെയ്സ്ബുക്ക് ഓരോ മാസത്തിലൊരിക്കൽ ഗ്രാഫ് എപിഐയുടെ പുതിയ പതിപ്പുകൾ പുറന്തള്ളുകയും കാലക്രമേണ പഴയവ ഒഴിവാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഇവയാണ് ലഭ്യമായ പതിപ്പുകൾ ഇപ്പോൾ ഈ നിലവിലെ പതിപ്പ് 2 6 ഉം ലഭ്യമായ ഏറ്റവും പഴയ പതിപ്പായ വേർഷൻ 2 0 ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം 0805 ഇപ്പോൾ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് 2 0 തിരഞ്ഞെടുത്ത് 'സബ്മിറ്റ്' അമർത്തുക കൂടാതെ ധാരാളം അധിക വിവരങ്ങൾ കാണിക്കുന്നതായി നിങ്ങൾ കാണുന്നു നമ്മൾ ഇപ്പോഴും പോസ്റ്റുകൾ നോക്കുന്നു പക്ഷേ ഇപ്പോൾ പോസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് ചിത്രങ്ങളുടെ ലിങ്ക് ടാഗുകൾ പോസ്റ്റിനായുള്ള സ്വകാര്യതാ ക്രമീകരണങ്ങൾ പോസ്റ്റിന്റെ തരം എന്നിവയും മറ്റ് നിരവധി കാര്യങ്ങളും പോലെ എല്ലാ പോസ്റ്റുകൾക്കും ഒരേ അളവിലുള്ള വിശദാംശമാണിത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും പുതിയ വേർഷൻ പതിപ്പ് 2 6 ലേക്ക് മടങ്ങുകയാണെങ്കിൽ ഈ ഫീൽഡുകളെല്ലാം ഇപ്പോഴും ലഭ്യമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാൽ ഡീഫോൾട് അഭ്യർത്ഥനയാൽ ഈ ഫീൽഡുകൾ തിരികെ ലഭിക്കാത്തതിനാൽ നിങ്ങൾ അവ വ്യക്തമായി അഭ്യർത്ഥിക്കേണ്ടതുണ്ട് 0839 നിങ്ങൾ ലൈക്കുകൾ 'ആക്ഷൻസ്' തിരഞ്ഞെടുത്ത് 'സബ്മിറ്റ്' ക്ലിക്കുചെയ്യുക 0845 നിങ്ങൾക്ക് ഈ ഫീൽഡുകൾ ലഭിക്കും എല്ലാ ഉപയോക്തൃ പോസ്റ്റുകൾക്കും 0 ലൈക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നു അതിനാൽ അവർ പ്രത്യക്ഷപ്പെടുന്നില്ല നിങ്ങൾക്ക് അവരുടെ ഐഡി ഉപയോഗിച്ച് വ്യക്തിഗത പോസ്റ്റ് നോക്കാം ഫേസ്ബുക്കിൽ ഏതൊരു ഉപയോക്താവും ചെയ്യുന്ന എല്ലാ പോസ്റ്റുകൾക്കും ഈ ഐഡി സവിശേഷമാണ് 0903 നിങ്ങൾ ഐഡിയിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ പോസ്റ്റ് ലഭിക്കും നിങ്ങൾ വേർഷൻ 2 0 ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും 0914 ഇപ്പോൾ ഗ്രാഫ് API ഡാറ്റ ഒരു json ഫോർമാറ്റിൽ നൽകുന്നു അതിൽ ഒന്നിലധികം ചുരുളൻ ബ്രാക്കറ്റുകളും ചതുര ബ്രാക്കറ്റുകളും ഉൾപ്പെടുന്ന javascript ഒബ്ജക്റ്റ് നൊട്ടേഷൻ ഫോർമാറ്റ് ആണ് ഈ json ഫോർമാറ്റിന് ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ വായിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാക്കുന്നതിന് ഈ മുഴുവൻ പ്രതികരണവും പകർത്തി ആരംഭമോ അവസാനിക്കുന്ന ബ്രാക്കറ്റുകളോ നിങ്ങൾക്ക് നഷ്ടമാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ബ്രാക്കറ്റുകൾ കാണാതാകുന്നത് ഡാറ്റയുടെ മുഴുവൻ ഫോർമാറ്റിനെയും നശിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കുക കോപ്പി ചെയുക 0949 Json വ്യൂവർ എന്ന ഉപകരണം ഉപയോഗിച്ച് ഈ ഡാറ്റ കൂടുതൽ വായിക്കാവുന്ന ഫോർമാറ്റിൽ നമ്മൾ ഇപ്പോൾ കാണും ഓൺലൈനിൽ അത്തരം നിരവധി ഉപകരണങ്ങൾ സൌജന്യമായി ലഭ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന at json viewer dot stack dot hu വ്യൂവർ ഡോട്ട് സ്റ്റാക്ക് ഡോട്ട് ഹു ആണ് 0951 നിങ്ങൾ പകർത്തിയ ഈ ഡാറ്റ ഒട്ടിക്കുക 0957 വ്യൂവർ ടാബിലേക്ക് പോകുക നിങ്ങൾക്ക് അതേ ഡാറ്റ കാണാൻ കഴിയും 1002 ഇത് കൂടുതൽ മനസ്സിലാക്കാനും വായിക്കാനും എളുപ്പമാണ് അവയ്ക്കുള്ളിലെ ഡാറ്റ കാണുന്നതിന് നിങ്ങൾക്ക് ബ്രാക്കറ്റുകൾ എളുപ്പത്തിൽ തുറക്കാനും അടയ്ക്കാനും കഴിയും ഇത് വളരെ എളുപ്പമാക്കുന്നു 1020 ഫേസ്ബുക്കിലെ ഉപയോക്താക്കൾ പേജുകൾ ഗ്രൂപ്പുകൾ ഇവന്റുകൾ മുതലായവ തിരയാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് API ഉപയോഗിച്ച് സെർച്ച് ക്വയറി തിരയൽ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയും എന്നാൽ സ്വകാര്യത ക്രമീകരണം പബ്ലിക്കായി സജ്ജമാക്കിയ ഫലങ്ങൾ മാത്രമേ സെർച്ച് നൽകുന്നുള്ളൂ 1035 തിരയൽ അന്വേഷണത്തിന് കുറഞ്ഞത് രണ്ട് പാരാമീറ്ററുകൾ ഉണ്ട് ഒരു അന്വേഷണ പരാമീറ്റർ 'q' nptel നെ തിരയാൻ അനുവദിക്കുന്നു കൂടാതെ API യ്ക്ക് ഏത് തരത്തിലുള്ള ഫലങ്ങളാണ് തിരയേണ്ടതെന്ന് പറയുന്ന 'ടൈപ്പ് പാരാമീറ്ററും' നമുക്ക് പേജ് എടുക്കാം അതിനാൽ ഞങ്ങൾ പ്രധാനമായും nptel എന്ന ഫേസ്ബുക്ക് പേജുകൾക്കായി തിരയുന്നു 1053 നോക്കൂ അവരുടെ പേരിൽ nptel ഉള്ള പേജുകളുടെ ഒരു മുഴുവൻ പട്ടികയും നമ്മൾക്ക് ലഭിച്ചു 1103 ഇപ്പോൾ നമുക്ക് nptel എന്ന പേരുള്ള ഗ്രൂപ്പുകൾക്കായി നോക്കാം അതിനാൽ നിങ്ങൾ ടൈപ്പ് ഗ്രൂപ്പ് എന്റർ അമർത്തുക അവരുടെ പേരിൽ nptel ഉള്ള ഒരു കൂട്ടം ഗ്രൂപ്പുകൾ ഉണ്ട് ഈ ഗ്രൂപ്പുകളിൽ ചിലത് അടഞ്ഞതും അവയിൽ ചിലത് തുറന്നതായിട്ടും നിങ്ങൾക്ക് കാണാം 1117 നമുക്ക് ഇപ്പോൾ സംഭവങ്ങൾ നോക്കാം അതിനാൽ ടൈപ്പ് is equal to event nptel ന്റെ പേരിൽ ഇപ്പോൾ Facebook പരിപാടികളൊന്നുമില്ല 1130 ഗ്രാഫ് API ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്ന് അറിയാൻ നിങ്ങൾക്ക് പരാമർശിക്കാവുന്ന ഈ മുഴുവൻ ഡോക്യുമെന്റേഷനും Facebook നൽകുന്നു 1137 ഡോക്സിൽ പോയി ഗ്രാഫ് API ക്ലിക്ക് ചെയ്യുക 1150 നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഡോക്യുമെന്റേഷനിൽ തിരയാനും കഴിയും 1156 ഉദാഹരണത്തിന് ഞങ്ങൾ ഇപ്പോൾ nptel പേജുകൾ തിരയാൻ ഉപയോഗിച്ച സെർച്ച് ക്യുറി ൽ സഹായം തേടാം 1201 അതിൽ ഗ്രാഫ് API തിരയൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ വിഭാഗം കാണിച്ചുതരുന്നു 1211 ഇങ്ങനെയാണ് നമ്മൾ അത് ചെയ്തത് സെർച്ച് ക്യുറി q അന്വേഷണത്തിനും ടൈപ്പ് ഒബ്ജക്റ്റ് തരത്തിനും തുല്യമാണ് 1217 നിങ്ങൾ അൽപ്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരയാൻ കഴിയുന്ന വിവിധ തരം വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഉപയോക്താക്കൾ പേജുകൾ ഇവന്റുകൾ ഗ്രൂപ്പുകൾ സ്ഥലങ്ങൾ മുതലായവ 1228 ഇപ്പോൾ നമുക്ക് API ഗ്രാഫിലേക്ക് മടങ്ങാം ഇപ്പോൾ നമ്മൾ nptel എന്ന പേരിൽ പേജുകൾ തിരയുമ്പോൾ സെർച്ച് ഫലങ്ങൾ മാത്രം കാണിക്കുന്ന പേജുകളെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല അതിനാൽ നമുക്ക് ഈ പേജുകൾ ഓരോന്നായി സ്വമേധയാ നോക്കാം 1245 ആദ്യ തിരയൽ ഫലത്തിന്റെ ഐഡി ഫീൽഡിൽ ക്ലിക്കുചെയ്യുക ഈ ഐഡി പകർത്തി Facebook dot com ഫേസ്ബുക്ക് ഡോട്ട് കോം slash ഈ ഐഡി ഒരു പുതിയ ടാബിൽ തുറക്കുക ഇത് ഈ ഐഡിക്ക് അനുയോജ്യമായ യഥാർത്ഥ ഫേസ്ബുക്ക് പേജ് തുറക്കും 1256 ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് പോസ്റ്റുകളില്ലാത്ത ഒരു ശൂന്യ പേജാണ് യഥാർത്ഥ വിവരങ്ങളില്ല ലൈക്കുകളില്ല അതിനാൽ ഇത് തീർച്ചയായും യഥാർത്ഥ nptel പേജ് അല്ല 1307 ഇനി നമുക്ക് അടുത്ത ഫലം നോക്കാം ഒരേ പ്രക്രിയ 1318 അടുത്ത റിസൾട്ടിന്റെ ഐഡിയിൽ ക്ലിക്ക് ചെയ്ത് ഈ ഐഡി കോപ്പി ചെയ്ത് ഒരു പുതിയ ടാബിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ഐഡി തുറക്കുക 1325 ഇത് ഒരു യഥാർത്ഥ nptel പേജ് പോലെ കാണപ്പെടുന്നു ഇത് 4 95 ആയി റേറ്റു ചെയ്തിരിക്കുന്നു 10000 ലൈക്കുകൾ സന്ദേശങ്ങളോട് വളരെ പ്രതികരിക്കുന്നതായി വിവരണങ്ങൾ പറയുന്നു അതിനാൽ ഇപ്പോൾ API ഉപയോഗിച്ച് ഈ പേജിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്റ്റുചെയ്യാൻ ശ്രമിക്കാം 1353 പേജിന്റെ ഫീൽഡിനെക്കുറിച്ചും വിഭാഗത്തെക്കുറിച്ചും നിലവിലെ ലൊക്കേഷൻ വിവരണം ഉപയോക്തൃനാമം സ്ഥിരീകരണ നില എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാൻ നമുക്ക് ശ്രമിക്കാം 1412 1415 പേജ് പരിശോധിച്ചിട്ടില്ലെന്നും അവിടെ ഞങ്ങൾ അഭ്യർത്ഥിച്ച മറ്റെല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമുക്ക് API യുടെ 2 0 പതിപ്പിലേക്ക് മാറാം കുറച്ച് മിനിറ്റ് മുമ്പ് ഞങ്ങൾ ചെയ്തതുപോലെ പേജിൽ ലഭ്യമായ എല്ലാ വിവരങ്ങളും എന്താണെന്ന് നോക്കാം 1428 ഇപ്പോൾ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് 2 0 തിരഞ്ഞെടുത്ത് ഈ ഫീൽഡുകൾ നീക്കം ചെയ്ത് സബ്മിറ്റ് ക്ലിക്കുചെയ്യുക 1436 ഇത് നോക്കൂ നിങ്ങൾക്ക് കാറ്റഗറി ചെക്ക് ഇന്നുകൾ പേജിന്റെ കവർ ചിത്രം തുറക്കുന്നതും അവസാനിക്കുന്നതുമായ മണിക്കൂറുകൾ അക്ഷാംശവും രേഖാംശവും ഉള്ള സ്ഥലം ഫോൺ നമ്പർ ഈ പേജ് ലൈക്ക് ചെയ്ത ആളുകളുടെ എണ്ണം തുടങ്ങിയവ എല്ലാം ലഭിച്ചു 1501 നിങ്ങൾ പേജ് തുറക്കുമ്പോൾ പേജിൽ ദൃശ്യമാകുന്ന എല്ലാ പോസ്റ്റുകളും അർത്ഥമാക്കുന്ന പേജ് ഫീഡ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷണ ബാറിൽ പേജ് ഐഡിക്ക് ശേഷം slash feed സ്ലാഷ് ഫീഡ് ചേർത്ത് എന്റർ അമർത്തുക 1506 പേജ് ചെയ്ത എല്ലാ പോസ്റ്റുകളുടെയും മറ്റേതെങ്കിലും ഫേസ്ബുക്ക് ഉപയോക്താവോ പേജോ ഈ nptel പേജിൽ പോസ്റ്റ് ചെയ്ത എല്ലാ പോസ്റ്റുകളുടെയും ഒരു ലിസ്റ്റ് നിങ്ങൾ ഇവിടെ കാണും ഇത് സാധാരണയായി വിപരീത കാലക്രമത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതായത് ഏറ്റവും പുതിയ പോസ്റ്റുകൾ ആദ്യം വരുന്നു ഗൂഗിൾ ഇന്ത്യ ആരംഭിച്ച ആൻഡ്രോയ്ഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനെക്കുറിച്ചും ഏറ്റവും പുതിയ പോസ്റ്റ് പറയുന്നു 1535 പേജിലെ അതേ ഉള്ളടക്കമാണോയെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും നമുക്ക് പേജിലേക്ക് മടങ്ങാം ഈ ആദ്യ പോസ്റ്റ് യഥാർത്ഥത്തിൽ ഒരു പിൻ ചെയ്ത പോസ്റ്റാണ് പേജ് അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഒരു പ്രത്യേക പോസ്റ്റ് പിൻ ചെയ്യാൻ കഴിയും അത് മുകളിലുള്ള പേജ് സന്ദർശിക്കുമ്പോഴെല്ലാം എല്ലാവരും കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു 1548 എന്നാൽ നിങ്ങൾ അൽപ്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ആദ്യ ഓർഡറിൽ ശേഷിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾ കാണും അതിനാൽ API ൽ ഞങ്ങൾ കണ്ട അതേ പോസ്റ്റാണ് ഇവിടെ ആൻഡ്രോയിഡ് സ്കിൽ ആൻഡ് സെർറ്റിഫിക്കേഷൻ പ്രോഗ്രാം പോസ്റ്റും 1603 എപിഐയിൽ നിന്ന് തന്നെ ഇത് 12 തവണ പങ്കിട്ടതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ പോസ്റ്റ് ലൈക്ക് ചെയ്ത ആളുകളുടെ ഈ മുഴുവൻ ലിസ്റ്റും ഉണ്ട് കൂടാതെ ഈ പോസ്റ്റിൽ കമന്റ് ചെയ്ത ആളുകളുടെ മുഴുവൻ ലിസ്റ്റും പൊതുവായ വാചകവും ടാഗുകളും ലൈക്കുകളും കമന്റുകളും മറ്റും ഉണ്ട് 1624 ഐഡിയിൽ ക്ലിക്കുചെയ്ത് വ്യക്തിഗത സെർച്ച് ഫലങ്ങൾ കാണാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടതുപോലെ പോസ്റ്റിന്റെ ഐഡിയിൽ ക്ലിക്കുചെയ്ത് വ്യക്തിഗത പോസ്റ്റുകൾ കാണാനും കഴിയും 1635 പേജുകൾക്കും ഗ്രൂപ്പുകൾക്കും ഒരു സംഖ്യാ ഐഡി ഉണ്ടെങ്കിലും ഐഡികളുടെ കാര്യത്തിൽ പോസ്റ്റുകൾ അല്പം വ്യത്യസ്തമായ ഫോർമാറ്റാണ് പിന്തുടരുന്നത് ഫെയ്സ്ബുക്കിലെ ഓരോ പോസ്റ്റിന്റെയും ഐഡി format user id underscore post id ഫോർമാറ്റ് യൂസർ ഐഡി അണ്ടർസ്കോർ പോസ്റ്റ് ഐഡി ആണ് ഈ പോസ്റ്റ് സൃഷ്ടിച്ച ഉപയോക്താവിന്റെ ഐഡി ആണ് യൂസർ ഐഡി അതിനാൽ ഇവിടെ അണ്ടർസ്കോറിന് മുമ്പുള്ള നമ്പർ NPTEL ന്റെ പേജ് ഐഡിയാണ് കൂടാതെ അണ്ടർസ്കോറിന് ശേഷമുള്ള നമ്പർ പോസ്റ്റിനോട് യോജിക്കുന്നു നിങ്ങൾക്ക് ഇവ രണ്ടും സംയോജിപ്പിച്ച് പൂർണ്ണമായ പോസ്റ്റ് ഐഡി ലഭിക്കും ഫേസ്ബുക്ക് അടുത്തിടെ പോസ്റ്റിനുള്ള പ്രതികരണങ്ങൾ ആരംഭിച്ചു ഇത് ഒരു പോസ്റ്റ് ഇഷ്ടപ്പെടുന്നതിനൊപ്പം സന്തോഷം കോപം സ്നേഹം മുതലായ പ്രതികരണങ്ങൾ കാണിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു നിങ്ങൾ ഈ പോസ്റ്റ് വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിനോട് പ്രതികരിച്ചവരിൽ 28 പേരുണ്ട് ഒരാൾ ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ API യുടെ 2 6 വേർഷൻ ഉപയോഗിച്ച് API കളിലും ഈ പ്രതികരണങ്ങൾ ലഭിക്കുന്നു വേർഷൻ 2 6 തിരഞ്ഞെടുക്കുക അന്വേഷണ ബാറിൽ പോസ്റ്റ് ഐഡിക്ക് ശേഷം slash reaction സ്ലാഷ് റീക്ഷൻ ടൈപ്പ് ചെയ്യുക ഈ പോസ്റ്റിനോട് പ്രതികരിച്ച എല്ലാ ആളുകളുടെയും പട്ടികയും പ്രതികരണത്തിന്റെ തരവും ഇത് നൽകുന്നു ഒരു പ്രത്യേക പ്രതികരണത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഈ ഫലങ്ങൾ ഫിൽട്ടർ ചെയ്യാനും കഴിയും ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ട ആളുകളുടെ പട്ടിക മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ എന്ന് പറയട്ടെ നിങ്ങൾ ചോദ്യത്തിൽ question mark type is equal to love എന്ന് ചേർത്ത് എന്റർ അമർത്തുക ഇത് കേസ് സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു അതിനാൽ നമ്മൾ ക്യാപ്സിൽ L O V E ടൈപ്പ് ചെയ്യുന്നു അവിടെ നിങ്ങൾ കാണും ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരാളെ API നിങ്ങൾക്ക് നൽകുന്നു ഈ ഉപയോക്താവിന്റെ പേര് Dhamu Sniper ദാമു സ്നൈപ്പർ എന്നാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിലേക്ക് തിരികെ പോയി പരിശോധിക്കാം ഇത് ഇവിടെയും അതേ പേര് കാണിക്കുന്നു ഗ്രാഫ് API ൽ പേജിംഗ് എന്ന ആശയം ഉണ്ട് അത് നമ്മൾ ഇത് വരെ നോക്കിയിട്ടില്ല എപിഐയിലേക്ക് നിങ്ങൾ ഒരു അന്വേഷണം നടത്തുമ്പോഴെല്ലാം ഫലങ്ങളുടെ എണ്ണം 25 ൽ കൂടുതലാണെങ്കിൽ API ഒന്നിലധികം പേജുകളിൽ പ്രതികരണം നൽകുന്നു ഫലങ്ങളുടെ ഏറ്റവും താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ മുമ്പത്തേതും അടുത്തതുമായ ഫലങ്ങളുടെ URL കൾ ഉൾക്കൊള്ളുന്ന പ്രതികരണത്തിൽ നിങ്ങൾക്ക് ഈ പേജിംഗ് ഒബ്ജക്റ്റ് കാണാൻ കഴിയും നിങ്ങൾ ഈ URL ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഡീഫോൾട് 25 ആയി സജ്ജമാക്കിയ ഒരു ലിമിറ്റ് പാരാമീറ്റർ നിങ്ങൾ കണ്ടെത്തും ഇപ്പോൾ നിങ്ങൾ ഈ URL ൽ ക്ലിക്കുചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത 25 ഫലങ്ങൾ ലഭിക്കും അതായത് ഈ കേസിൽ NPTEL പേജിലെ അടുത്ത 25 പോസ്റ്റുകൾ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഈ നെക്സ്റ്റ് വീണ്ടും ഉണ്ട് ഈ URL എല്ലാ പേജുകളിലും അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും എല്ലാ ഫലങ്ങളും ലഭിക്കുന്നതുവരെ വീണ്ടും വീണ്ടും കാണിക്കുകയും ചെയ്യുന്നു ഒരൊറ്റ അന്വേഷണത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിയും ഈ ലിമിറ്റ് പരാമീറ്റർ സ്വമേധയാ മാറ്റുക അതിനാൽ നമുക്ക് ഈ പാരാമീറ്റർ 100 ആയി മാറ്റി സബ്മിറ്റ് ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഫലങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചതായി നിങ്ങൾ ശ്രദ്ധിക്കും നമുക്ക് താഴേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യാം വീണ്ടും ഒരു നെക്സ്റ്റ് ഉണ്ട് എന്നാൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഫലങ്ങൾ അവശേഷിക്കുന്നില്ലെന്ന് കാണാം അടുത്ത പേജ് ശൂന്യമാണ് NPTEL പേജുകളുടെ ഫീഡിലെ മൊത്തം പോസ്റ്റുകളുടെ എണ്ണം 100 അല്ലെങ്കിൽ അതിൽ കുറവാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം കൂടുതൽ ഉണ്ടെങ്കിൽ അവ അടുത്ത പേജിൽ കാണിക്കുമായിരുന്നു അതിനാൽ എത്ര പോസ്റ്റുകൾ ഉണ്ടെന്ന് കൃത്യമായി കാണാൻ നമുക്ക് ശ്രമിക്കാം ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഈ മുഴുവൻ പ്രതികരണവും പകർത്തി കുറച്ച് മിനിറ്റ് മുമ്പ് ഞങ്ങൾ കണ്ട json വ്യൂവർ ടൂളിൽ ഇടുക എന്നതാണ് നിങ്ങൾ ഈ മുഴുവൻ പ്രതികരണവും തിരഞ്ഞെടുക്കുക ഈ json വ്യൂവറിൽ പകർത്തി ഒട്ടിക്കുക വ്യൂവർ ടാബിലേക്ക് പോകുക ഇപ്പോൾ ഈ ഡാറ്റ ഒബ്ജക്റ്റ് വികസിപ്പിക്കുക ഇത് 0 ൽ നിന്ന് ആരംഭിച്ച് 64 വരെ പോകുന്നു അതായത് ഈ പേജ് നിർമ്മിച്ച മൊത്തം 65 പൊതു പോസ്റ്റുകൾ ഉണ്ട് API പൊതു ഡാറ്റ മാത്രമേ നൽകൂ എന്ന് ഓർക്കുക അതിനാൽ സ്വകാര്യതാ ക്രമീകരണം പബ്ലിക് അല്ലാത്ത ഒരു പോസ്റ്റ് പേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലങ്ങളിൽ ദൃശ്യമാകില്ല നിങ്ങൾ അവസാനത്തെ പോസ്റ്റ് ഒബ്ജക്റ്റ് വിപുലീകരിക്കുകയാണെങ്കിൽ ഈ പേജ് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പൊതു പോസ്റ്റ് ഇതാണ് ഫെബ്രുവരി 28 2015 ഹൃദ്യമായ ആശംസകൾ NPTEL ഒരു Facebookദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഉണ്ട് തുടങ്ങിയവ എന്നാൽ ഈ പേജ് ഒരു പരിശോധിച്ചുറപ്പിച്ച പേജല്ലെന്ന് നമ്മൾ നേരത്തെ കണ്ടു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ NPTEL സൃഷ്ടിച്ചതും NPTEL ഉടമസ്ഥതയിലുള്ളതുമായ യഥാർത്ഥ പേജ് ആണെന്ന് സ്ഥിരീകരിക്കാൻ ഒരു മാർഗവുമില്ല ഇതുവരെ API ഗ്രാഫിന്റെ ചില അടിസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു API ൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില അടിസ്ഥാന അന്വേഷണങ്ങൾ നമ്മൾ പര്യവേക്ഷണം ചെയ്തു API തിരികെ നൽകുന്ന പ്രതികരണങ്ങളുടെ ഫോർമാറ്റ് മുതലായവ അടുത്ത വീഡിയോയിൽ API ഉപയോഗിച്ച് ഒരു ആപ്പ് ഉണ്ടാക്കുക ആക്സസ് ടോക്കണുകൾ വിപുലീകരിക്കുക പൈത്തൺ മുതലായവ ഉപയോഗിച്ച് പ്രോഗ്രമാറ്റിക്കായി ഡാറ്റ ശേഖരിക്കുക തുടങ്ങിയ കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കും